മൾട്ടിവാരിയേറ്റ് ഒപ്റ്റിമൈസേഷൻ വിത്ത് ഇക്വാളിറ്റി കൺസ്ട്രയിന്റ്സ് ഒപ്റ്റിമൈസേഷൻ ഫോർ ഡാറ്റാ സയൻസ് നെക്കുറിച്ചുള്ള നമ്മളുടെ ലെക്ച്ചറുകൾ നമുക്ക് തുടരാം ഈ ലെക്ച്ചറിൽ നമ്മൾ മൾട്ടിവാരിയേറ്റ് നോൺ ലീനിയർ ഒപ്റ്റിമൈസേഷൻ നോക്കും മുമ്പത്തെ ലെക്ച്ചറുകളിൽ ഈ പ്രോബ്ളത്തിന്റെ അൺകൺസ്ട്രൈൻഡ് വേർഷൻ നമ്മൾ കണ്ടു ഈ ലെക്ച്ചറിൽ ഇക്വാളിറ്റി കൺസ്ട്രൈൻഡ്കൾ എന്ന് വിളിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രോബ്ളങ്ങൾ നമ്മൾ നോക്കും അത് ഞാൻ ഇപ്പോൾ വിശദീകരിക്കും വളരെ ലളിതമായ ഒരു ഉദാഹരണം ഉപയോഗിച്ചാണ് ഞാൻ ഇത് വിശദീകരിക്കാൻ പോകുന്നത് എന്നാൽ ഈ ഉദാഹരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സന്ദർഭം സജ്ജീകരിക്കാം തുടർന്ന് ഡാറ്റാ സയൻസിനെക്കുറിച്ചുള്ള ഒരു കോഴ്സിൽ എന്തുകൊണ്ട് ഇതിൽ താൽപ്പര്യമുണ്ടാകണം എന്ന ചോദ്യം ചോദിക്കാം ഡാറ്റാ സയൻസിനെക്കുറിച്ചുള്ള ഒരു കോഴ്സിൽ കൺസ്ട്രൈന്റുകളിൽ നമ്മൾക്ക് താൽപ്പര്യമുള്ളതിന്റെ കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെയാണ് നമ്മൾ ഡാറ്റ സയൻസ് വീക്ഷണകോണിൽ നിന്ന് ഒപ്റ്റിമൈസേഷൻ നോക്കുന്നു കാരണം ഡാറ്റ സയൻസ് പ്രോബ്ലങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ പല കേസുകളിലും എറർ കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നു നമ്മൾ എറർ കുറയ്ക്കുമ്പോൾ പ്രോബ്ലം പരിഹരിക്കാൻ ലേണിംഗ് അൽഗോരിതം learning algorithm എന്ന് നമ്മൾ വിളിക്കുന്ന ഗ്രേഡിയന്റ് അടിസ്ഥാനമാക്കിയുള്ള അൽഗോരിതം ഉപയോഗിക്കാമെന്ന് നമ്മൾ പറഞ്ഞു ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ എറർ ചെറുതാക്കാനോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യാനോ ശ്രമിക്കുമ്പോൾ സൊല്യൂഷനിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പ്രോബ്ലത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നമ്മൾ അറിഞ്ഞേക്കാം ഉദാഹരണത്തിന് നിങ്ങൾ നിരവധി വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ എത്ര ബന്ധങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ല എന്നാൽ ചില ബന്ധങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പായും അറിയാം ആ ബന്ധങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം ഡാറ്റാ സയൻസ് പ്രോബ്ലം പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അറിയപ്പെടുന്ന ബന്ധങ്ങൾ തൃപ്തികരമാകുന്ന തരത്തിൽ നിങ്ങളുടെ പ്രോബ്ലം നിയന്ത്രിക്കാൻ ശ്രമിക്കും അതിനാൽ അത് ഒരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ളമുണ്ടാക്കാം അവിടെ നിങ്ങൾക്ക് കൺസ്ട്രൈന്റുകളുണ്ട് പ്രത്യേകിച്ചും ഇക്വാളിറ്റി കൺസ്ട്രൈന്റുകൾ കൂടാതെ ഡാറ്റാ സയൻസ് പ്രോബ്ളങ്ങൾ പരിഹരിക്കുമ്പോൾ പ്രോബ്ളത്തിന്റെ കൺസ്ട്രൈന്റു വിവരണം നിങ്ങൾ നോക്കേണ്ട മറ്റ് നിരവധി സാഹചര്യങ്ങളുണ്ട് ഈ പ്രോബ്ളങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ഇക്വാളിറ്റി കൺസ്ട്രൈന്റു പ്രോബ്ളങ്ങൾ പരിശോധിച്ചാൽ കൂടുതൽ പ്രസക്തമായ ഇനീക്വാളിറ്റി കൺസ്ട്രൈന്റുകളിലേക്ക് നമ്മൾ നോക്കും ഉദാഹരണത്തിന് ഡാറ്റാ സയൻസ് അൽഗോരിതത്തിൽ സപ്പോർട്ട് വെക്റ്റർ മെഷീനുകൾ എന്നു വിളിക്കപ്പെടുന്ന ഇനീക്വാളിറ്റി കൺസ്ട്രൈന്റുകളുള്ള അൽഗോരിതങ്ങൾ വളരെ ഉപയോഗപ്രദമാണ് അതിനാൽ നമ്മൾ ഇക്വാളിറ്റി ഇനീക്വാളിറ്റി കൺസ്ട്രൈന്റുകളിലേക്ക് നോക്കാൻ പോകുന്നു ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ പ്രോബ്ലം നോക്കാം ഇവിടെ 2 x12 4 x22 എന്ന ഫംഗ്ഷൻ മിനിമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ x1 x2 എന്നീ 2 വേരിയബിളുകളിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണിത് ഇതിന്റെ യഥാർത്ഥ ദൃശ്യവൽക്കരണം 3 ഡയമെൻഷനിൽ ആയിരിക്കും ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൂല്യം z ദിശയിൽ പ്ലോട്ട് ചെയ്യുന്നു എന്നിരുന്നാലും നമ്മൾക്ക് കോണ്ടൂർ പ്ലോട്ടുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയാം നിങ്ങൾ ഇവിടെ ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ഈ കോണ്ടൂർ പ്ലോട്ടുകൾ നിങ്ങൾ കാണും ഈ പ്ലോട്ടുകൾ ഓരോന്നും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള കോണ്ടൂർ പ്ലോട്ടുകളാണ് ഇവ എലിപ്സുകൾ ellipses ആണെന്ന് നിങ്ങൾ വീണ്ടും കാണും കാരണം നിങ്ങൾ കോൺസ്റ്റന്റ് ആയ കോണ്ടൂർ പ്ലോട്ടുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 x12 4 x22 k ഉണ്ടായിരിക്കും ഇത് ഒരു എലിപ്സ് ആണ് അതാണിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഫംഗ്ഷന്റെ ഒപ്റ്റിമൽ മൂല്യം നോക്കുകയാണെങ്കിൽ പരിശോധനയിലൂടെ ഒപ്റ്റിമൽ മൂല്യം 0 ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം ഇത് എനിക്ക് ഡിസിഷൻ വേരിയബിളുകളുടെ സ്ക്വയറുകളോട് കൂടിയ പദങ്ങളുള്ള ഫംഗ്ഷനുകളാണ് ഇവിടെ 2 പദങ്ങൾ 2x12 4x22 ഉണ്ട് ഇവയിൽ ഓരോന്നിനും എടുക്കാവുന്ന ഏറ്റവും കുറഞ്ഞ മൂല്യം 0 ആയിരിക്കണം അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് അൺകൺസ്ട്രൈൻഡ് മിനിമം x1 0 x2 0 ആണ് ആ പോയിന്റിലെ ഒബ്ജക്റ്റീവ് മൂല്യവും 0 ആണ് അതിനാൽ ഈ പോയിന്റിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ് എനിക്ക് കൺസ്ട്രയ്ന്റുകളൊന്നും ഇല്ലെങ്കിൽ ഒപ്റ്റിമൽ മൂല്യം 0 ആണെന്നും അത് ഇവിടെ എന്ന സ്റ്റാർ പോയിന്റിലാണെന്നും ഞാൻ പറയും ഈ സാഹചര്യത്തിൽ ഞാൻ ഒരു കൺസ്ട്രയിന്റ് അവതരിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഞാൻ വളരെ ലളിതമായ ഒരു ലീനിയർ കൺസ്ട്രയിന്റ് ആണ് അവതരിപ്പിക്കാൻ പോകുന്നത് 3 x1 2 x2 12 എന്ന ഈ ഫോമിന്റെ ഒരു കൺസ്ട്രയിന്റ് ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം ഇപ്പോൾ ഇത് അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് ഇനിപ്പറയുന്നതാണ് നിങ്ങൾ x1 x2 എന്നിവയ്ക്കുള്ള ഒരു സൊല്യൂഷനായി തിരയുകയാണ് അത് അർത്ഥമാക്കുന്നത് ഈ കൺസ്ട്രൈന്റിനെ തൃപ്തിപ്പെടുത്തുന്നു അതിനാൽ ഈ ഫംഗ്ഷന്റെ ഏറ്റവും മികച്ച മൂല്യം ഒരു മിനിമൈസേഷൻ വീക്ഷണകോണിൽ നിന്ന് 0 ആണെന്ന് എനിക്കറിയാമെങ്കിലും എനിക്ക് ആ മൂല്യം ഉപയോഗിക്കാൻ കഴിയില്ല കാരണം പോയിന്റ് ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തില്ല ഞാൻ x1 0 x2 0 ഇട്ടാൽ അത് ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിക്കും അതിനാൽ അൺകൺസ്ട്രൈൻഡ് സൊല്യൂഷൻ കൺസ്ട്രൈൻഡ് സൊല്യൂഷൻന് തുല്യമല്ല ഇപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം ഇത് മനസിലാക്കാൻ ഈ 2 ഡൈമൻഷണൽ സ്പേസിൽ ഈ കൺസ്ട്രെന്റിനെ പ്രതിനിധീകരിച്ച് നമ്മൾ ആദ്യം ആരംഭിക്കുന്നു ഇതൊരു ലീനിയർ കൺസ്ട്രയിന്റ് ആയതിനാൽ ഈ കൺസ്ട്രയിന്റ് നൽകുന്ന ഒരു ലൈൻ ആണ് ഇവിടെയുള്ളതെന്ന് നിങ്ങൾ കാണും ഇപ്പോൾ എനിക്ക് ലഭിക്കുന്ന ഏത് സൊല്യൂഷനും ഈ കൺസ്ട്രയ്ന്റിനെ തൃപ്തിപ്പെടുത്തണമെന്ന് നമ്മൾ പറഞ്ഞതിനാൽ ഈ ലൈനിൽ നിന്ന് മാത്രമേ എനിക്ക് സൊല്യൂഷനുകൾ തിരഞ്ഞെടുക്കാനാകൂ കാരണം ഈ ലൈനിലെ പോയിന്റുകൾ മാത്രമേ ഈ കൺസ്ട്രയ്ന്റിനെ തൃപ്തിപ്പെടുത്തൂ ഇപ്പോൾ ഈ ലൈനിൽ നിങ്ങൾക്ക് നിരവധി പോയിന്റുകൾ തിരഞ്ഞെടുക്കാമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ പോയിന്റ് തിരഞ്ഞെടുക്കാം ആ പോയിന്റിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൂല്യം ഈ പോയിന്റിനെ വിഭജിക്കുന്ന ഒരു കോണ്ടുറുമായി പൊരുത്തപ്പെടും അതിനാൽ നിങ്ങൾ ഇവിടെ ഒരു പോയിന്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൂല്യം ഉണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് തിരഞ്ഞെടുക്കാം അപ്പോൾ അതിന് മറ്റൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൂല്യം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ കാണും അത് ആ പോയിന്റിൽ ലൈനിനെ ഇന്റർസെക്റ്റ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കോണ്ടറിനോട് യോജിക്കും അതിനാൽ ഈ ലൈനിൽ നിങ്ങൾ വ്യത്യസ്ത പോയിന്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വ്യത്യസ്ത മൂല്യങ്ങൾ എടുക്കുന്നുവെന്നും നമ്മൾക്ക് താൽപ്പര്യമുള്ളത് ഇനിപ്പറയുന്നതാണെന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നു ഈ ലൈനിലെ എല്ലാ പോയിന്റുകളിലും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൂല്യം ഏറ്റവും കുറഞ്ഞ ഒരു പോയിന്റ് തിരഞ്ഞെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് മനസിലാക്കാൻ നമുക്ക് രണ്ട് പോയിന്റുകൾ തിരഞ്ഞെടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അതിനാൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് തിരഞ്ഞെടുക്കുകയും ഇവിടെ ഒരു പോയിന്റ് തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒറിജിനൽ ഫംഗ്ഷൻ വ്യൂ പോയിന്റ് ചെറുതാക്കുന്നതിൽ നിന്ന് ഈ പോയിന്റുകളിൽ ഏതാണ് മികച്ചതെന്ന് ചോദ്യം ചോദിക്കാം ഇതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള വഴി താഴെ പറയുന്നതാണ് ഞാൻ ഇവിടെ ഒരു പോയിന്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൂല്യം ആ പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന കോണ്ടൂറിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കുമെന്ന് എനിക്കറിയാം നിങ്ങൾ ഈ 2 പോയിന്റുകൾ താരതമ്യം ചെയ്താൽ ഈ പോയിന്റ് ഈ പോയിന്റിനേക്കാൾ മോശമാണെന്ന് നിങ്ങൾ കാണും കാരണം നിങ്ങൾ ഈ കോണ്ടൂറുകൾ നോക്കുകയാണെങ്കിൽ ഇവ വർദ്ധിച്ചുവരുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൂല്യങ്ങളുടെ കോണ്ടൂർണ് ഈ പോയിന്റിനെ ഇന്റർസെക്റ്റ് ചെയ്യുന്ന കോണ്ടൂർ ഈ പോയിന്റിലെ രേഖയെ ഇന്റർസെക്റ്റ് ചെയ്യുന്ന കോണ്ടറിനുള്ളിലാണ് അതിനാൽ അടിസ്ഥാനപരമായി എന്താണ് അർത്ഥമാക്കുന്നത് കാരണം ഇത് ഒബ്ജക്റ്റീവ് ഫങ്ക്ഷൻ മൂല്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ദിശയാണ് ഈ പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന കോണ്ടൂർ ഈ പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന കോണ്ടൂർനുള്ളിലാണ് അതിനാൽ അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് ഈ ഫംഗ്ഷൻ ലൈനിലെ ഈ പോയിന്റിൽ കുറഞ്ഞ മൂല്യം എടുക്കുന്നു അതിനാൽ നിങ്ങൾ ലൈനിലൂടെ പോകുമ്പോൾ മൂല്യം മാറിക്കൊണ്ടിരിക്കുന്നതായി നിങ്ങൾ കാണുന്നു കൂടാതെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൂല്യം ഏറ്റവും കുറഞ്ഞ ആ പ്രത്യേക പോയിന്റ് കണ്ടെത്തുക എന്നതാണ് എന്റെ ജോലി അതിനാൽ നമ്മൾ തിരയുന്ന കൺസ്ട്രൈൻഡ് ഒപ്റ്റിമൈസേഷൻ സൊല്യൂഷന്റെ അടിസ്ഥാന ആശയമാണിത് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അൺകൺസ്ട്രൈൻഡ് മിനിമം കൺസ്ട്രൈന്റ് മിനിമം പോലെയല്ല എന്നതാണ് അൺകൺസ്ട്രൈൻഡ് മിനിമം തന്നെ കൺസ്ട്രൈന്റ് ലൈനിൽ ആണെന്ന് മാറുകയാണെങ്കിൽ രണ്ടും ഒരുപോലെയായിരിക്കും എന്നാൽ ഈ സാഹചര്യത്തിൽ അൺകൺസ്ട്രൈൻഡ് മിനിമം കൺസ്ട്രൈൻഡ് മിനിമത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നമ്മൾ വ്യക്തമായി കാണുന്നു അതിനാൽ എനിക്ക് ഒരു കൺസ്ട്രൈൻഡ് മാത്രമുള്ളപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ പരിഹരിക്കും ഞാൻ ആദ്യം നിങ്ങൾക്ക് ഫലം നൽകും തുടർന്ന് മുമ്പത്തെ സ്ലൈഡിലേക്ക് തിരികെ പോയി ഫലം വീണ്ടും വിശദീകരിക്കും തുടർന്ന് മറ്റൊരു വീക്ഷണകോണും അത് ഈ സൊല്യൂഷനിലേക്ക് നയിക്കുന്നതെങ്ങനെയെന്ന് കാണിക്കും അതിനാൽ അൺകൺസ്ട്രൈൻഡ് പതിപ്പിൽ നിങ്ങൾ സാധാരണയായി ഒരു മൾട്ടിവാരിയേറ്റ് ഫംഗ്ഷൻ f എടുക്കുകയാണെങ്കിൽ x എന്നത് x1 x2 ഉം xn ഉം ആണെന്ന് നമുക്ക് അനുമാനിക്കാം ഒപ്റ്റിമൽ സൊല്യൂഷൻ ഗ്രേഡ് f 0 ആണെന്ന് നമ്മൾക്കറിയാം അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് ∂f ∂x1 ഉം ∂f ∂x2 ഉം ∂f ∂xn വരെ 0 ന് തുല്യമാണ് അതിനാൽ ഇത് കൂടുതൽ വിപുലീകരിക്കുമ്പോൾ എനിക്ക് ∂f ∂x1 0 ∂f ∂x2 0 ∂f ∂xn 0 എന്നിങ്ങനെ സമവാക്യങ്ങൾ ലഭിക്കും ഇപ്പോൾ n വേരിയബിളുകൾ ഉണ്ടെങ്കിൽ ഈ ഫോമിന്റെ n സമവാക്യങ്ങൾ ഉണ്ടാകുമെന്ന് ശ്രദ്ധിക്കുക അതിനാൽ എനിക്ക് n വേരിയബിളുകളിൽ n സമവാക്യങ്ങളുണ്ട് എനിക്ക് അത് പരിഹരിക്കാനും ഒരു സൊല്യൂഷൻ കണ്ടെത്താനും കഴിയും ഞാൻ ഒരു സൊല്യൂഷൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് മാക്സിമം ആണോ അല്ലെങ്കിൽ മിനിമം ആണോ അതോ സാഡിൽ പോയിന്റാണോ എന്ന് കണ്ടെത്താത്താം ഞാൻ സെക്കന്റ് ഡെറിവേറ്റീവ് കണക്കാക്കുകയും തുടർന്ന് ഹെസ്സിയൻ മാട്രിക്സ് നിർമ്മിക്കുകയും തുടർന്ന് ഹെസ്സിയൻ മാട്രിക്സ് പോസിറ്റീവ് ഡെഫിനിറ്റാണോ നെഗറ്റീവ് ഡെഫിനിറ്റാണോ അതോ സെമി ഡിഫിനിറ്റാണോ എന്നതിനെ ആശ്രയിച്ച് പോയിന്റ് മിനിമം പോയിന്റാണോ മാക്സിമം പോയിന്റാണോ എന്നതിനെ കുറിച്ച് നമുക്ക് വിലയിരുത്തലുകൾ നടത്താം ഇപ്പോൾ x1 x2 xn വരെ ആയ f മിനിമൈസ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞാനും ഒരു കൺസ്ട്രയിന്റ് അവതരിപ്പിച്ചുവെന്ന് നമുക്ക് അനുമാനിക്കാം ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ് hx1 x2 xn0 രൂപത്തിലുള്ള ഒരു കൺസ്ട്രയിന്റ് പറയാം ഇതൊരു ഇക്വാളിറ്റി കൺസ്ട്രയിന്റ് ആണ് നമ്മൾക്ക് എല്ലായ്പ്പോഴും ഈ ഫോമിൽ ഒരു കൺസ്ട്രൈന്റ് എഴുതാം നിങ്ങൾക്ക് വലതുവശത്ത് കുറച്ച് സംഖ്യയുണ്ടെങ്കിൽപ്പോലും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇടത് വശത്തേക്ക് നീങ്ങുകയും ഈ കൺസ്ട്രയിന്റ്നെ 0 ന് തുല്യമായി എഴുതുകയും ചെയ്യാം അതിനാൽ അടിസ്ഥാനപരമായി എന്റെ ജോലി ഈ കൺസ്ട്രയിന്റിന് വിധേയമായി f ന്റെ ഏറ്റവും മിനിമം പോയിന്റ് കണ്ടെത്തുക എന്നതാണ് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് തരാം ഈ റിസൾട്ട് എങ്ങനെ ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ ഗ്രേഡ് f 0 തന്നെ നമ്മൾക്ക് ഫലം നൽകി ഈ സാഹചര്യത്തിൽ ഫലം ഇനിപ്പറയുന്നതാണെന്ന് മാറും നമുക്ക് ചില λ കൾക്ക് ∇ λ∇ ആയിരിക്കണമെന്നെഴുതാം അതിനാൽ നിങ്ങൾക്ക് ഇത് നെഗറ്റീവ് ആയി എഴുതാം അല്ലെങ്കിൽ നെഗറ്റീവ് ഡ്രോപ്പ് ചെയ്യാം മൂല്യത്തിന്റെ ചിഹ്നം അത് λ ശ്രദ്ധിക്കും പക്ഷേ ഞാൻ ഈ പ്രത്യേക രൂപത്തിലാണ് എഴുതുന്നത് അതിനാൽ ഇത് വിപുലീകരിക്കാൻ അടിസ്ഥാനപരമായി എനിക്ക് ഇതുപോലൊന്ന് ഉണ്ടെന്ന് പറയുന്നു എനിക്ക് ഡൊമെയ്ൻ ∂f ∂x1 ∂f ∂x2 ∂f ∂xn ഉണ്ട് λ ∂h ∂x1 ∂h ∂x1 ∂h ∂xn വരെ അതിനാൽ നമ്മൾ ഇത് കൂടുതൽ വിപുലീകരിച്ചാൽ എനിക്ക് n സമവാക്യങ്ങൾ ലഭിക്കും ഈ സാഹചര്യത്തിൽ എനിക്ക് ഈ സമവാക്യങ്ങൾ 0 ആയി ലഭിച്ചു ഈ സാഹചര്യത്തിൽ എനിക്ക് ∂f∂x1 λ∂h∂x1 ഫോമിന്റെ സമവാക്യങ്ങൾ ലഭിക്കും ഇതൊരു സമവാക്യമായിരിക്കും രണ്ടാമത്തെ സമവാക്യം ∂f∂x2 λ ∂h∂x2 എന്നിങ്ങനെയായിരിക്കും അവസാന സമവാക്യം ∂f ∂ xn λ ∂h ∂xn എനിക്ക് മുമ്പത്തെ പോലെ n സമവാക്യങ്ങൾ ഉള്ളതു ശ്രദ്ധിക്കുക അൺകൺസ്ട്രയിന്റ് കേസിൽ എനിക്ക് വലത് വശത്ത് പൂജ്യങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് വലതുവശത്ത് ഈ ടേമുകളുണ്ട് എന്നിരുന്നാലും ഈ സമവാക്യങ്ങൾ ഇപ്പോൾ n 1 വേരിയബിളിലാണ് കാരണം x1 x2 xn വരെയുണ്ട് കൂടാതെ ഞാൻ ഇവിടെ λ ഒരു പുതിയ വേരിയബിളും അവതരിപ്പിച്ചു അതിനാൽ എന്റെ സമവാക്യങ്ങൾ n 1 വേരിയബിളുകളിലാണ് ഈ പോയിന്റിൽ എനിക്ക് n സമവാക്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ എനിക്ക് ഉപയോഗിക്കേണ്ട ഒരു സമവാക്യം കൂടി ഉണ്ടെന്ന് ശ്രദ്ധിക്കുക ഈ സമവാക്യങ്ങളെല്ലാം തൃപ്തിപ്പെടുത്തുന്ന x1 മുതൽ x n വരെയുള്ള ചില സൊല്യൂഷനുകൾ ഞാൻ കണ്ടെത്തുകയാണെങ്കിൽ ആ സമവാക്യം ഇനിപ്പറയുന്നതാണ് അപ്പോൾ അതും കൺസ്ട്രൈന്റിനെ തൃപ്തിപ്പെടുത്തണം അതിനാൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് വിവിധ ഫംഗ്ഷനുകളുടെ ഗ്രേഡിയന്റ് രൂപത്തെക്കുറിച്ചാണ് എന്നാൽ കൺസ്ട്രൈന്റകളെ പ്രതിനിധീകരിക്കുന്ന സമവാക്യവും കൺസ്ട്രൈൻഡ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ളത്തിന് നമുക്ക് ലഭിക്കുന്ന ഏത് സൊല്യൂഷനും തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ ഈ n സമവാക്യങ്ങൾക്കൊപ്പം എനിക്ക് മറ്റൊരു സമവാക്യവും ലഭിക്കും അതായത് hx1 x2 xn 0 ആയിരിക്കണം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു ലീനിയർ കൺസ്ട്രെയിന്റ് ഉപയോഗിച്ച് എനിക്ക് n 1 വേരിയബിളുകളിൽ n 1 സമവാക്യം ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു അതിനാൽ എനിക്ക് ഇത് പരിഹരിക്കാൻ കഴിയും കൺസ്ട്രൈൻഡ് കേസും അൺകൺസ്ട്രൈൻഡ് കേസും തമ്മിലുള്ള വ്യത്യാസം ആവർത്തിക്കാൻ അൺകൺസ്ട്രൈൻഡ് കേസിൽ നമുക്ക് n വേരിയബിളുകളിൽ n സമവാക്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു കൺസ്ട്രൈന്റ് കേസിൽ നമുക്ക് n 1 വേരിയബിളുകളിൽ n 1 സമവാക്യങ്ങളുണ്ട് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ഒന്നിൽ കൂടുതൽ കൺസ്ട്രൈൻഡ്കൾ ഉണ്ടെങ്കിൽ നമുക്ക് 2 കൺസ്ട്രൈൻഡ്കൾ പറയാം 2 കൺസ്ട്രൈൻഡ്കൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കാണും ഈ സാഹചര്യത്തിൽ നമ്മൾ f മിനിമൈസ് ചെയ്യാൻ പോകുന്നു ഇപ്പോൾ നമുക്ക് 2 കൺസ്ട്രൈൻഡ്കൾ ഉണ്ടെന്ന് പറയാം നമ്മൾ പറയാൻ പോകുന്നത് h1 0 h2 0 ഈ സാഹചര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് കൺസ്ട്രൈൻഡ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഇതാണ് ∇f λ1∇ λ2∇ അതിനാൽ നിങ്ങൾ ഇതും ഒരു കൺസ്ട്രൈൻഡ് കേസും നോക്കിയാൽ നിങ്ങൾക്ക് സമാനതകൾ കാണാം ഒരു കൺസ്ട്രെയിന്റ് കേസിൽ നമ്മൾ ഒരു അധിക പാരാമീറ്റർ അവതരിപ്പിച്ചു 2 കൺസ്ട്രെയ്ൻറ് കേസിൽ x2 അധിക പാരാമീറ്ററുകൾ അവതരിപ്പിച്ചു ഒരു കൺസ്ട്രൈന്റ് കേസിൽ നമ്മൾ ലളിതമായി പറഞ്ഞു grad f ∇f λ ∇h ഈ സാഹചര്യത്തിൽ ഈ λ∇h എന്നത് λ1∇h1 λ2∇h2 എന്നാകുന്നു ഇപ്പോൾ 3 ഇക്വാളിറ്റി കൺസ്ട്രൈന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 3 ടേമുകൾ ഉണ്ടായിരിക്കും l ഇക്വാളിറ്റി കൺസ്ട്രൈന്റു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലൊന്ന് ഉണ്ടാകും ഇവിടെ ഇത് l ടേമുകളുടെ ആകെത്തുകയാണ് അതിനാൽ ആ ഭാഗം വ്യക്തമാണ് എനിക്ക് 2 കൺസ്ട്രൈന്റുകൾ ഉള്ളപ്പോൾ എല്ലാ വേരിയബിളുകൾക്കും പരിഹരിക്കാൻ എനിക്ക് മതിയായ സമവാക്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട മറ്റൊരു ഭാഗം അതായത് അടിസ്ഥാനപരമായി ഞാൻ 2 പുതിയ വേരിയബിളുകൾ λ1 λ2 എന്നിവ അവതരിപ്പിച്ചു എന്നാണ് എന്നിരുന്നാലും ഈ സമവാക്യം നിങ്ങളുടെ ഇക്വാളിറ്റി കൺസ്ട്രൈന്റുകളുടെ എണ്ണം പരിഗണിക്കാതെ തന്നെ എല്ലായ്പ്പോഴും സമവാക്യങ്ങളായിരിക്കും കാരണം ഗ്രേഡ് f എന്നത് ∂f ∂x1 ∂f ∂x2 ∂f ∂xn ആകും ഇവയെല്ലാം n ബൈ 1 വെക്ടറുകളാണ് അതിനാൽ ഇത് എനിക്ക് n സമവാക്യങ്ങൾ നൽകും എന്നിരുന്നാലും എനിക്ക് 2 ഇക്വാളിറ്റി കൺസ്ട്രൈന്റുകൾ ഉണ്ടെങ്കിൽ കൺസ്ട്രൈന്റുകൾ നേരിട്ട് നൽകുന്ന 2 അധിക സമവാക്യങ്ങൾ ഞാൻ കണ്ടെത്തേണ്ടതുണ്ട് ഒപ്റ്റിമൽ പോയിന്റ് രണ്ട് കൺസ്ട്രൈന്റുകളും തൃപ്തിപ്പെടുത്തേണ്ടതിനാൽ എനിക്ക് ഒരു അധിക സമവാക്യം x1x 0 ആണ് മറ്റൊരു അധിക സമവാക്യം 2x 0 ആണ് നിങ്ങൾക്ക് n വേരിയബിളുകളിൽ 2 ഇക്വാളിറ്റി കൺസ്ട്രൈന്റുകൾ ഉണ്ടെങ്കിൽ എനിക്ക് n 2 വേരിയബിളുകളും n 2 സമവാക്യങ്ങളും ഉണ്ടാകും ഇത് എല്ലായ്പ്പോഴും ശരിയാണെന്ന് നമ്മൾ കണ്ടെത്തും എനിക്ക് 3 ഇക്വാളിറ്റി കൺസ്ട്രൈന്റുകൾ ഉണ്ടെങ്കിൽ എനിക്ക് x1 മുതൽ xn λ1 λ2 λ3 വരെയുള്ള n 3 വേരിയബിളുകൾ ഉണ്ടായിരിക്കും ഈ ഗ്രേഡിയന്റ് സമവാക്യം എനിക്ക് എപ്പോഴും n സമവാക്യങ്ങളും 3 അധിക കോൺസ്റ്റന്റുകൾ എനിക്ക് 3 അധിക സമവാക്യങ്ങളും നൽകുമായിരുന്നു അതിനാൽ എനിക്ക് n 3 സമവാക്യങ്ങളും n 3 വേരിയബിളുകളും ഉണ്ടായിരിക്കും അത് എനിക്ക് l ഇക്വാളിറ്റി കൺസ്ട്രൈന്റുള്ള ഈ ഫോമിലേക്ക് നേരിട്ട് സാമാന്യവൽക്കരിക്കാൻ കഴിയും അതിനാൽ സിംഗിൾ കൺസ്ട്രെയ്ൻറ് കേസിൽ ഇത്തരമൊരു പദപ്രയോഗം എങ്ങനെ ലഭിക്കുന്നു എന്ന് നമുക്ക് സിംഗിൾ കൺസ്ട്രെയിന്റ് കേസിൽ നോക്കാം ഈ പദങ്ങളുടെ ആകെത്തുകയുള്ള ഈ പദപ്രയോഗം മനസ്സിലാക്കാൻ കുറച്ചുകൂടി സങ്കീർണ്ണമാണ് ഞാൻ അത് ചെയ്യാൻ പോകുന്നില്ല ഏക സമവാക്യ കേസിൽ ഇത് എന്തുകൊണ്ട് ശരിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അവബോധജന്യമായ അനുഭവം നൽകാൻ പോകുന്നു കുറച്ചുകൂടി പരിശ്രമിച്ചാൽ കൂടുതൽ ഇക്വാളിറ്റി കൺസ്ട്രൈന്റുൾക്കും മറ്റും ഇത് ശരിയാകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനാകും അതിനാൽ നമ്മൾ മുമ്പത്തെ സ്ലൈഡിലേക്ക് മടങ്ങുന്നു ഞാൻ ഈ സ്ലൈഡ് ചർച്ച ചെയ്യുകയും ഇക്വാളിറ്റി കൺസ്ട്രൈന്റുൾ ഒപ്റ്റിമൽ സൊല്യൂഷനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് വിശദീകരിക്കുകയും ചെയ്തു ഈ ലൈനിൽ നിരവധി പോയിന്റുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അവയെല്ലാം പ്രായോഗികമായ സൊല്യൂഷനുകളായിരിക്കാം ഫീസിബിൾ സൊല്യൂഷനുകൾ അർത്ഥമാക്കുന്നത് ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന എല്ലാ സൊല്യൂഷനുകളുമാണ് എന്നിരുന്നാലും അവയിൽ ചില പോയിന്റുകൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു പോയിന്റ് എനിക്ക് ഏറ്റവും കുറഞ്ഞ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൂല്യം നൽകും അതിനാൽ ഈ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിനുള്ള കാൻഡിഡേറ്റ് സൊല്യൂഷനുകൾ നോക്കുമ്പോൾ നമ്മൾക്ക് താൽപ്പര്യമുള്ള ഈ ലൈനിലെ പോയിന്റുകളിലേക്കാണ് നമ്മൾ നോക്കുന്നത് കാരണം അത് ഒരു കൺസ്ട്രൈന്റാണ് ഇപ്പോൾ നമുക്ക് അല്പം വ്യത്യസ്തമായ വീക്ഷണകോണുകൾ എടുക്കാം തുടർന്ന് ഒബ്ജക്റ്റീവ് ഫങ്ക്ഷൻ വീക്ഷണകോണിൽ നിന്ന് അതേ പ്രോബ്ലം നോക്കാം ഇപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ഫങ്ക്ഷൻ വീക്ഷണകോണിൽ നിന്ന് നിങ്ങൾ എനിക്ക് കോൺസ്ട്രയിന്റ് ഒന്നും വച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ പോയിന്റ് ഒരു സൊല്യൂഷനായി തിരഞ്ഞെടുക്കും ഇപ്പോൾ നിങ്ങൾ ഈ പോയിന്റ് നോക്കുമ്പോൾ ഇത് ഒരു മികച്ച പോയിന്റാണെന്ന് പറയുമ്പോൾ ഇത് എന്റെ കൺസ്ട്രയിന്റ്നെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ എന്ന് ഞാൻ കണ്ടെത്തുന്നു തുടർന്ന് നിങ്ങൾ ഈ പോയിന്റ് ഇതിലേക്ക് സബ്സ്റ്റിട്യൂട്ട് ചെയ്യുക തുടർന്ന് ഇത് കൺസ്ട്രയിന്റ്നെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ കൺസ്ട്രൈന്റുകൾ തൃപ്തിപ്പെടുത്താൻ ഞാൻ നിർബന്ധിതനായതിനാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നു അതിനാൽ ഒരു ഒബ്ജെക്ടിവ് ഫങ്ക്ഷൻ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അൽപ്പം നഷ്ടപ്പെടുത്തട്ടെ എന്ന് നിങ്ങൾ പറയും തുടർന്ന് എനിക്ക് കൺസ്ട്രൈന്റുകൾ നേരിടാൻ കഴിയുമോ എന്ന് നോക്കുക നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒബ്ജക്റ്റീവ് ഫങ്ക്ഷൻ മൂല്യം വർദ്ധിക്കുന്ന കോണ്ടൂറുകളാണിവ മിനിമൈസേഷൻ വീക്ഷണകോണിൽ നിന്ന് അവ യഥാർത്ഥത്തിൽ നല്ലതല്ല അതിനാൽ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ കൺസ്ട്രയിനുകൾ തൃപ്തികരമല്ലാത്തതിനാൽ എനിക്ക് കൺസ്ട്രയിനുകൾ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ എന്നറിയാൻ അൽപ്പം നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് ഒരുപക്ഷേ ഞാൻ ഇവിടെ ഒരു പോയിന്റിലേക്ക് പോയേക്കാം തുടർന്ന് ഇതൊരു കോൺസ്റ്റന്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കോണ്ടൂർ പോയിന്റാണ് എന്തെങ്കിലും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ അടിസ്ഥാനപരമായി ഈ രൂപരേഖയിലെ വ്യത്യസ്ത പോയിന്റുകളിൽ ഞാൻ പോകുകയും ഇരിക്കുകയും ചെയ്യുന്നു ഒപ്പം ഈ ഏറ്റവും കുറഞ്ഞ പോയിന്റിൽ നിന്ന് ഞാൻ അകന്നുപോകുകയും ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കൂടുതൽ കൂടുതൽ നഷ്ടപ്പെടുന്നു അതായത് ഞാൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൂല്യം വർദ്ധിപ്പിക്കുന്നു ഇപ്പോൾ യുക്തിപരമായി നിങ്ങൾ ഈ വാദം നീട്ടിക്കൊണ്ടുപോകുകയാണെങ്കിൽ ഇത് ഞാൻ ഇവിടെ നീക്കിയ ആദ്യത്തെ പോയിന്റാണെന്ന് നമുക്ക് പറയാം ഇത് അടിസ്ഥാനപരമായി ഇതിനെക്കാൾ മോശമാണ് കാരണം ഇത് ഈ കോണ്ടൂറിന് പുറത്തുള്ള ഒരു കോണ്ടൂർ ആണെന്ന് നിങ്ങൾ കാണുന്നു പക്ഷേ ഞാൻ നീങ്ങി ഇവിടെ ഞാൻ എന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻനെ കൂടുതൽ വഷളാക്കി പക്ഷേ ഞാൻ ഇപ്പോഴും കൺസ്ട്രെന്റിനെ തൃപ്തിപ്പെടുത്തുന്നില്ല അതിനാൽ ഞാൻ കുറച്ച് കൂടി നൽകുന്നു ഞാൻ ഈ പോയിന്റിലേക്ക് വരുന്നു ഞാൻ ഒരു കോണ്ടൂർ കാണുന്നു ഈ പോയിന്റ് ഇതിനേക്കാൾ മോശമാണ് കാരണം ഈ കോണ്ടൂർ ഈ കോണ്ടറിന് പുറത്താണ് ഞാൻ ഈ വാദഗതി പുറത്തെടുക്കുകയാണെങ്കിൽ ഞാൻ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നത് തുടരും ഈ ഇക്വാളിറ്റി കൺസ്ട്രയിന്റ് തൃപ്തിപ്പെടുത്താൻ ഞാൻ നിർബന്ധിതനായതുകൊണ്ടാണ് ഞാൻ ഇത് കൂടുതൽ വഷളാക്കുന്നത് അതിനാൽ ഇവിടെ ഞാൻ പറയാൻ വരുന്നത് ഇത് ഇപ്പോഴും എന്റെ യഥാർത്ഥ സൊല്യൂഷനേക്കാൾ വളരെ മോശമായ ഒരു കോണ്ടൂർ ആണ് പക്ഷേ എന്റെ കൺസ്ട്രൈന്റു തൃപ്തിപ്പെടുത്താൻ ഇത് ഇപ്പോഴും പര്യാപ്തമല്ല അതിനാൽ നിങ്ങൾ ഈ പ്രക്രിയ ആവർത്തിക്കുന്നത് തുടരുകയാണെങ്കിൽ ഞാൻ ആദ്യമായി ഈ ലൈനിൽ സ്പർശിക്കുന്ന ഒരു കോണ്ടൂർ നിങ്ങൾ ഇവിടെ കണ്ടെത്തും അതിനാൽ ഞാൻ ആദ്യമായി ഈ ലൈനിൽയിൽ സ്പർശിക്കുമ്പോൾ ആദ്യമായി എന്റെ ഒബ്ജക്റ്റീവ് ഫങ്ക്ഷന്റെ മൂല്യം ഞാൻ ഉപേക്ഷിക്കുമ്പോൾ എനിക്ക് കൺസ്ട്രൈന്റും തൃപ്തിപ്പെടുത്താൻ കഴിയും ഇപ്പോൾ ഈ രേഖയെ സ്പർശിക്കുന്നതുപോലുള്ള ഒരു കോണ്ടൂർ ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പോകാൻ എനിക്ക് ഒരു പ്രോത്സാഹനവുമില്ല കാരണം അതിനപ്പുറത്തേക്ക് പോകുന്നത് ഞാൻ എന്റെ ഒബ്ജക്റ്റീവ് ഫങ്ക്ഷനെ കൂടുതൽ വഷളാക്കുമെന്ന് അർത്ഥമാക്കും അതിനാൽ ഞാൻ ആ ലൈനിൽ സ്പർശിച്ചപ്പോൾ അതാണ് ഏറ്റവും മികച്ച ഒത്തുതീർപ്പ് കാരണം അവിടെയാണ് ഞാൻ ആദ്യമായി സാധ്യമാകുന്നത് കൂടുതൽ മുന്നോട്ട് പോകുന്നത് എന്റെ ഒബ്ജക്റ്റീവ് ഫങ്ക്ഷനെ കൂടുതൽ വഷളാക്കുകയേയുള്ളൂ അതിനാൽ ജ്യാമിതീയമായി ഇത് അർത്ഥമാക്കുന്നത് ഒരു കോണ്ടൂർ ഈ രേഖയിൽ സ്പർശിക്കുന്നത് വരെ ഞാൻ എന്റെ വസ്തുനിഷ്ഠമായ പ്രവർത്തനത്തെ കൂടുതൽ വഷളാക്കുന്നു എന്നതാണ് അതിനാൽ ആ സമയത്ത് ഈ രേഖ ആ കോണ്ടൂരിന്റെ ഒരു സ്പർശനമായി മാറുകയും ആ കോണ്ടൂർ എന്താണെന്ന് ഓർക്കുകയും ചെയ്യും ചില k കൾക്ക് f k ആണ് അതിനാൽ ഈ കോണ്ടൂർ എനിക്ക് കൺസ്ട്രൈന്റ് ഉള്ളപ്പോൾ കൺസ്ട്രൈന്റ് ഈ കോണ്ടൂറിലേക്കും ഒപ്റ്റിമൽ പോയിന്റിലേക്കും ഒരു ടാൻജെന്റ് ആയി മാറുന്ന തരത്തിൽ ഒരു k തിരഞ്ഞെടുക്കണം ഈ ജ്യാമിതീയ വസ്തുത നിങ്ങൾ സമവാക്യങ്ങളായി പ്രതിനിധീകരിക്കുമ്പോൾ ഞാൻ കാണിച്ച ഫോം നിങ്ങൾക്ക് ലഭിക്കും ഗ്രേഡ് f λ മടങ്ങ് ഗ്രേഡ് h ആണ് അതിനാൽ ഇത് ഒരു കൺസ്ട്രൈന്റ് കേസിന് വേണ്ടിയുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിരവധി ഇക്വാളിറ്റി കൺസ്ട്രെന്റുകൾ ഉള്ളപ്പോൾ ഒറ്റ ഇക്വാളിറ്റി കൺസ്ട്രെന്റ കേസിൽ കാണുന്നത് പോലെ എളുപ്പമല്ല എനിക്ക് 2 ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രസ്താവന പറയാം grad f λ1 grad h1 λ2 grad h2 ഈ പ്രസ്താവന അടിസ്ഥാനപരമായി പറയുന്നത് ഈ നെഗറ്റീവ് ഗ്രേഡിയന്റ് h1 ന്റെ ഗ്രേഡിന്റെയും h2 ന്റെ ഗ്രേഡിന്റെയും ലീനിയർ കോമ്പിനേഷനായാണ് എഴുതേണ്ടത് അതിന് ജ്യാമിതീയ വ്യാഖ്യാനമുണ്ട് അതിനാൽ ഇക്വാളിറ്റി കൺസ്ട്രൈന്റുകളുള്ള ഒപ്റ്റിമൈസേഷനായി നമ്മൾക്ക് ഈ വ്യവസ്ഥകൾ ലഭിക്കുന്നതിന്റെ കാരണം അതാണ് നിങ്ങൾ ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന പ്രധാന കാര്യം നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഇക്വാളിറ്റി കൺസ്ട്രൈന്റുകളുള്ള ഉള്ളതിനാൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ പാരാമീറ്ററുകൾ അവതരിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് എന്നിരുന്നാലും എല്ലായ്പ്പോഴും മതിയായ സമവാക്യങ്ങളും വേരിയബിളുകളും ഉണ്ടാകും അതിനാൽ എല്ലാ ആശയങ്ങളും ഒരുമിച്ച് കൊണ്ടുവരാൻ നമുക്ക് ഒരു ന്യൂമെറിക്കൽ എക്സാംപ്ൾ നോക്കാം മുമ്പത്തെ സ്ലൈഡുകളിൽ നമ്മൾ നോക്കിയ അതേ ഉദാഹരണം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നു ഈ കണ്സ്ട്രെന്റിന് വിധേയമായി 2 x12 4 x22 ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായി മിനിമൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു ഒപ്റ്റിമൽ പോയിന്റിനായി നമ്മൾ ഇനിപ്പറയുന്ന സമവാക്യങ്ങൾ എഴുതി ഒപ്റ്റിമൽ പോയിന്റ് തിരിച്ചറിയുന്നതിന് ∇ എന്നത് λ ∇ ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു തുടർന്ന് നമുക്ക് h 0 ഉണ്ടായിരിക്കണം ഇത് മനസ്സിലാക്കാൻ നമുക്ക് കണക്കുകൂട്ടൽ നടത്താം അടിസ്ഥാനപരമായി ∇ എന്നത് ∂f ∂x1 ∂f ∂x2 ആണ് അതിനാൽ നിങ്ങൾ ഈ ഒബ്ജക്റ്റീവ് ഫങ്ക്ഷൻ നോക്കുകയാണെങ്കിൽ ∂f ∂x1 കേവലം 4 x1 ഉം ∂f ∂x2 8 x2 ഉം ആയിരിക്കും നമുക്ക് ഗ്രേഡ് f നെഗറ്റീവ് ആയിരിക്കും നമുക്ക് ഗ്രേഡ് h നോക്കാം h ഈ സമവാക്യമാണ് ഞാൻ ∂h ∂x1 ∂h ∂x2 ചെയ്താൽ ഇത് ∂h∂x1 എന്നത് കേവലം 3 ആയിരിക്കും ∂h∂x2 എന്നത് 2 ആയിരിക്കും അതിനാൽ ഈ സമവാക്യം എന്താണ് എന്ന് നോക്കാം നിങ്ങൾ ഇത് ഒരു ബ്രാക്കറ്റിൽ ഇടുകയാണെങ്കിൽ ഈ സമവാക്യം നിങ്ങൾ കാണും നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ കാണാനാകും നിങ്ങൾക്ക് ആദ്യത്തെ സമവാക്യം ∂f ∂x1 λ ∂h ∂x1 ഉണ്ട് നമുക്ക് 4x1 3λ എന്ന സമവാക്യമുണ്ട് അതുപോലെ രണ്ടാമത്തെ സമവാക്യം 8x2 2λ ആയി മാറും ഈ സമവാക്യം അടിസ്ഥാനപരമായി നമുക്ക് ഇവിടെയുള്ള കൺസ്ട്രൈൻ സമവാക്യത്തിന്റെ അതേ സമവാക്യം ആണ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 2 വേരിയബിളുകൾ ആയിരിക്കുമെന്നും 2 സമവാക്യങ്ങൾ ലഭിക്കുമെന്നും അത് ∇f 0 ആയിരിക്കുമെന്നും നമ്മൾ കരുതി എന്നാൽ ഇക്വാളിറ്റി കൺസ്ട്രെയിന്റിനോട് കൂടെ നമ്മൾ ഒരു പുതിയ പാരാമീറ്റർ λ ചേർത്തു അതിനാൽ നമ്മൾക്ക് x1 x2 λ എന്നിവയിൽ 3 സമവാക്യങ്ങൾ ആവശ്യമാണ് നമ്മൾക്ക് ഇവിടെ ഈ 3 സമവാക്യങ്ങളുണ്ട് നിങ്ങൾ ഈ 3 സമവാക്യങ്ങൾ പരിഹരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സൊല്യൂഷൻ ലഭിക്കും ഇത് കൺസ്ട്രൈൻഡ് കേസിൽ നിങ്ങളുടെ ഒപ്റ്റിമൽ സൊല്യൂഷനാണ് 0 0 ആയിരിക്കുമായിരുന്ന അൺകൺസ്ട്രൈൻഡ് കേസിലെ ഒപ്റ്റിമൽ സൊല്യൂഷനിൽ നിന്ന് വ്യത്യസ്തമാണത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫങ്ക്ഷന്റെ മൂല്യം നമ്മൾ ഉപേക്ഷിച്ചു എന്നിരുന്നാലും ഇത് ലൈനിന്റെ ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പോയിന്റാണ് അതിനാൽ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ളങ്ങളിൽ നമ്മൾ ഇക്വാളിറ്റി കൺസ്ട്രൈനുകൾ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയാണ് ഇവ എങ്ങനെ ഉപയോഗപ്രദമാണ് അല്ലെങ്കിൽ ഒരു ഡാറ്റാ സയൻസ് വീക്ഷണകോണിൽ നിന്ന് നമ്മൾ അവ ആദ്യം പഠിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇതിനകം വിവരിച്ചിട്ടുണ്ട് ഇതോടെ ഞാൻ ഈ ലെക്ച്ചർ അവസാനിപ്പിക്കും അടുത്ത ലെക്ച്ചറിൽ ഇനീക്വാളിറ്റി കൺസ്ട്രൈനുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് നോക്കാം കൂടാതെ ഡാറ്റാ സയൻസ് വീക്ഷണകോണിൽ നിന്ന് ഇനീക്വാളിറ്റി കൺസ്ട്രൈനുകൾ ഉപയോഗിച്ച് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ളങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് മനസിലാക്കാൻ നമ്മൾക്ക് താൽപ്പര്യമുള്ളത് എന്തുകൊണ്ടാണെന്നും ഞാൻ വിശദീകരിക്കും